അതിനാൽ വെയ്റ്റഡ് ഗ്രാഫിൽ മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ നിർമ്മിക്കുന്നതിനുള്ള പ്രശ്നം ഞങ്ങൾ നോക്കുന്നു ഇത് ചെയ്യുന്നതിന് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന രണ്ട് അടിസ്ഥാന തന്ത്രങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ആദ്യത്തേത് പ്രിമിന്റെ അൽഗോരിതംPrim's Algorithm എന്ന അൽഗോരിതത്തിലേക്ക് നയിക്കുന്നു രണ്ടാമത്തേത് ക്രുസ്കലിന്റെ അൽഗോരിതംKruskal's Algorithm എന്ന അൽഗോരിതം നയിക്കുന്നു അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ പ്രിമിന്റെ അൽഗോരിതം നോക്കും അതിനാൽ പ്രശ്നം ഡൊമെയ്ൻ ഇനിപ്പറയുന്നതാണ് ഞങ്ങൾക്ക് ഒരു വെയ്റ്റഡ് അൺഡൈറെക്ടഡ് ഗ്രാഫ് ഉണ്ട് അതിനാൽ V എന്നത് വെർട്ടെക്സുകളുടെ കൂട്ടമാണ് E എന്നത് എഡ്ജുകളുടെ കൂട്ടമാണ് w എന്നത് ഒരു വെയ്റ്റഡ്ന്റെ പ്രവർത്തനമാണ് g കണക്റ്റുചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ അനുമാനിച്ചു കാരണം g കണക്റ്റുചെയ്തിട്ടില്ലാത്തതിനാൽ ഒരു സ്പാനിങ് ട്രീ പണിയാൻ മാർഗമില്ല സ്പാനിങ് ട്രീ ഓർക്കുക എഡ്ജുകളുടെ ഒരു ഉപ സെറ്റ് ആണ് ഇത് എല്ലാ വെർട്ടെക്സുകളുടെ g ൽ ബന്ധിപ്പിക്കുന്നു അതിനാൽ g ഇതിനകം കണക്റ്റുചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എഡ്ജുകളുടെ ഒരു ഉപ സെറ്റ് ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കാൻ ഒരു വഴിയുമില്ല അതിനാൽ ഒരു കണക്റ്റഡ് വെയിറ്റഡ് അൺഡൈറെക്ടഡ് ഗ്രാഫ് ആണ് ഇപ്പോൾ മിനിമം വെയ്റ്റൽ സ്പാനിങ് ട്രീ തിരിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ പ്രൈമിന്റെ അൽഗോരിതത്തിലെ ഈ തന്ത്രം ഏറ്റവും മിനിമം കോസ്റ്റൽ ആരംഭിക്കുന്നു കൂടാതെ നിലവിലെ ട്രീ ബന്ധിപ്പിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ എഡ്ജിൽ ട്രീ നീട്ടിക്കൊണ്ടിരിക്കുക അതിനാൽ പ്രിമിന്റെ അൽഗോരിതത്തിന്റെ ഒരു തരം ഉയർന്ന തലത്തിലുള്ള പതിപ്പ് ഇതാ ശരിയാണ് അതിനാൽ ഞങ്ങൾ മിനിമം കോസ്റ്റ് എഡ്ജ് ഉപയോഗിച്ച് ആരംഭിക്കുകയും അത് പട്ടികയിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു ട്രീ രൂപപ്പെടുന്ന എഡ്ജുകളുടെ ഒരു പട്ടികയാണ് T E അതിനാൽ ട്രീ എഡ്ജുകളുടെ ഒരു ശേഖരമായി ഞങ്ങൾ വിവരിക്കും തുടർന്ന് ഞങ്ങൾ ട്രീൽ i j എന്നിവ ചേർത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ i ഉം j ഉം ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് കണക്റ്റുചെയ്യേണ്ട മൈനസ് 2 വെർട്ടെക്സ് ഉപേക്ഷിക്കുന്നു അതിനാൽ നമ്മൾ മൈനസ് 2 തവണ എന്തെങ്കിലും ചെയ്യണം അതിനാൽ n മൈനസ് 2 തവണ നമ്മൾ ഒരു എഡ്ജ് ചേർക്കേണ്ടതുണ്ട് ഓരോ തവണയും ഞങ്ങൾ ഒരു എഡ്ജ് ചേർക്കുന്നു ഒരു വെർട്ടെക്സ് കൂടി ബന്ധിപ്പിക്കും അതിനാൽ നിരവധി എഡ്ജുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു ട്രീ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം ട്രീ പൂർണ്ണമായും n മൈനസ് 1 എഡ്ജ് ഉണ്ടെന്ന് ഓർക്കുക അതിനാൽ മിനിമം കോസ്റ്റ് എഡ്ജ് ഉപയോഗിച്ച് ആരംഭിച്ച് ഞങ്ങൾ ആദ്യ എഡ്ജ് ചേർത്തു അതിനാൽ നമുക്ക് n മൈനസ് 2 ചേർക്കാം അതിനാൽ നമ്മൾ ചെയ്യുന്നത് മൈനസ് 2 തവണ ട്രീടെ ഒരു അറ്റവും മരത്തിന് പുറത്ത് ഒരു അറ്റവും ഉള്ള ഏറ്റവും ചെറിയ എഡ്ജ് ആണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിനാൽ ഇത് ട്രീ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഒരു വെർട്ടെക്സ് v ആണ് അതിനാൽ ഞങ്ങൾ ഇത് ബന്ധിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ ഈ പുതിയ എഡ്ജ് ഞങ്ങളുടെ ട്രീ എഡ്ജുകളുടെ പട്ടികയിൽ ചേർക്കുകയും ഈ വെർട്ടെക്സ് ഞങ്ങളുടെ ട്രീ വെർട്ടെക്സുകളുടെ പട്ടികയിൽ ചേർക്കുകയും ചെയ്യുന്നു അവസാനം ഈ n മൈനസ് 2 തവണ ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാ എഡ്ജുകളും ബന്ധിപ്പിച്ചതിനാൽ നമുക്ക് ഒരു സ്പാനിംഗ് ട്രീയും ഉണ്ട് ക്ലെയിമിനെക്കാളും കൂടുതൽ കാരണം ഞങ്ങൾ ഒരു എഡ്ജ് പോയിന്റ് ചേർക്കാൻ മിനിമം കോസ്റ്റ് എഡ്ജ് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മൊത്തത്തിലുള്ള കാര്യം മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ ആണ് തീർച്ചയായും ഇതെല്ലാം ഞങ്ങൾ തെളിയിക്കില്ല എന്നാൽ ഇതാണ് പ്രൈം അൽഗോരിതം എന്ന നിലയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ശരിയാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും തെളിയിക്കേണ്ടത് ശരി ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതംDijkstras Algorithm പോലെ പ്രൈമിന്റെ അൽഗോരിതം വളരെ ഗ്രീഡി അൽഗോരിതം ആണെന്ന് നിങ്ങൾക്ക് കാണാം ഓരോ ഘട്ടത്തിലും ട്രീ എങ്ങനെ നീട്ടണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അതിനാൽ നിലവിലെ ട്രീടെ അയൽപക്കത്ത് ഞങ്ങൾ നോക്കുന്നു ട്രീടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഏറ്റവും അടുത്തുള്ള വെർട്ടെക്സ് ഞങ്ങൾ തിരയുന്നു പക്ഷേ ഏറ്റവും ചെറിയ എഡ്ജ് ഞങ്ങൾ അത് ചേർക്കുന്നു അതിനാൽ ഇത് ഒരു പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് തുടർന്ന് ഞങ്ങൾ പ്രാദേശിക തിരഞ്ഞെടുപ്പുകളുടെ ഈ ശ്രേണികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആത്യന്തികമായി ഞങ്ങൾ ആഗോളതലത്തിൽ ഒരു വിശാലമായ ട്രീൽ എത്തിച്ചേരുന്നു അവകാശവാദം ആഗോളതലത്തിൽ ഞങ്ങൾ സാധ്യമായ ഏറ്റവും മികച്ച ട്രീ നിർമ്മിച്ചു ശരിയാണ് അതിനാൽ ലോക്കൽ ചോയ്സുകളുടെ ഒരു ശ്രേണി ഉണ്ടാക്കുന്ന ഗ്രീഡി അൽഗോരിതത്തിന്റെ ഒരു ഉദാഹരണമാണിത് ഒരിക്കലും തിരികെ പോയി അവ പുനർവിചിന്തനം ചെയ്യരുത് ഒടുവിൽ ഒരു ആഗോള ഒപ്റ്റിമം നേടുക പലപ്പോഴും ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം അത്തരമൊരു തന്ത്രം നിങ്ങൾക്ക് ശരിയായ കാര്യം നൽകണമെന്നില്ല അതിനാൽ ഇത് പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ എല്ലായ്പ്പോഴും ന്യായീകരിക്കേണ്ടതുണ്ട് അതിനാൽ പ്രൈമിന്റെ അൽഗോരിതം ശരിയാണോ എന്ന് തെളിയിക്കുന്നതിന് ക്രൂസ്കലിന്റെ അൽഗോരിതം തെളിയിക്കാൻ ഞങ്ങൾ ഇത് ഉപയോഗിക്കും പിന്നീട് ശരിയാക്കുക എല്ലാ മിനിമം സെപ്പറേറ്റർ ലെമ്മയും വളരെ ഉപയോഗപ്രദമായ ഒരു അഭിപ്രായം ഞങ്ങൾ തെളിയിക്കുന്നു അതിനാൽ ഈ വെയ്റ്റഡ് അൺ ഡൈറെക്ടഡ് ഗ്രാഫ് ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം കൂടാതെ നമ്മൾ വെർട്ടിക്സ് v സെറ്റ് നോക്കുന്നു അത് രണ്ട് പാതകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഇതിനെ വിഭജനം എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ u എന്നും w എന്നും വിളിക്കുന്ന രണ്ട് വ്യത്യസ്ത വഴികളുണ്ട് ഇവ രണ്ടും ശൂന്യമല്ലെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ കുറഞ്ഞത് ഒരു വെർട്ടെക്സ് u ഉം ഒരു വെർട്ടെക്സ് w ഉം ഉണ്ട് ഇപ്പോൾ ഈ വിഭജനത്തിലൂടെ കടന്നുപോകുന്ന ഏറ്റവും ചെറിയ എഡ്ജ് ഞാൻ നോക്കാം മുഴുവൻ ഗ്രാഫും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക അതിനാൽ അവ u ൽ നിന്ന് w ലേക്ക് പോകാനുള്ള ഒരു മാർഗമായിരിക്കണം എനിക്ക് u ൽ നിന്ന് w ലേക്ക് പോകാൻ കഴിയുന്ന ചില വഴികൾ ഞാൻ ഏറ്റവും ചെറിയ എഡ്ജ് പരിശോധിക്കട്ടെ അവസാന പോയിന്റ് ചെറിയ u എന്നും ചെറിയ w എന്നും ഞാൻ വിളിക്കട്ടെ അതിനാൽ ഇപ്പോൾ ക്ലെയിം എല്ലാ മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീലും ഈ എഡ്ജ് ഉൾപ്പെടുത്തണം എന്നാണ് ഇത് വളരെ ശക്തമായ അവകാശവാദമാണ് തീർച്ചയായും ഒരു വശത്ത് ഒരു നിബന്ധനയുണ്ട് അതായത് രണ്ട് എഡ്ജുകളിലും ഒരേ വഴിയില്ലെന്ന് ഞങ്ങൾ ഒരു നിമിഷം അനുമാനിക്കുന്നു ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ വിശ്രമിക്കും എന്ന് നമുക്ക് പിന്നീട് കാണാം അതിനാൽ ഒരേ വെയ്റ്റൽ രണ്ട് എഡ്ജുകളില്ല എന്ന നിബന്ധനയിൽ മിനിമം സെപ്പറേറ്റർ ലെമ്മ നിങ്ങൾ ശൂന്യമല്ലാത്ത ഭാഗങ്ങൾ ചെയ്യാൻ ഞങ്ങളെ വേർപെടുത്തുമ്പോഴെല്ലാം ഈ രണ്ട് ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ എഡ്ജ് എല്ലാ സ്പാനിങ് ട്രീലും കിടക്കണം മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ അതിനാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കേസ് അതിനാൽ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് അനുമാനിക്കാം അതിനാൽ ഈ മഞ്ഞ കാര്യം പറയാൻ ഞാൻ ഒരു ഭാഗം വരയ്ക്കും നമുക്ക് ഇതിനെ u എന്ന് വിളിക്കാം അതിരുകളില്ലാത്തത് ഇത് v ഇത് w അതിനാൽ ഇപ്പോൾ u w എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ എഡ്ജ് നോക്കാം അതിനാൽ ഇപ്പോൾ ഏറ്റവും മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീലും ഇത് ഉണ്ടായിരിക്കണമെന്നാണ് അവകാശവാദം അതിനാൽ ഗ്രാഫ് കണക്റ്റുചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതിനാൽ മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ ഉണ്ടായിരിക്കണമെന്ന് കരുതുക അതിനാൽ ഈ എഡ്ജ്ൽ ഉൾപ്പെടാത്ത ഏറ്റവും മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ T എന്ന് കരുതുന്നില്ലെങ്കിൽ ധാരാളം ട്രീ ഉണ്ട് അതിനാൽ ആ ട്രീൽ u ട്രീ ബന്ധിപ്പിച്ചിരിക്കണം കാരണം ഏതെങ്കിലും സ്പാനിങ് ട്രീ എല്ലാ വെർട്ടെക്സ് ബന്ധിപ്പിക്കുന്നു അതിനാൽ ഈ എഡ്ജ് ഉൾക്കൊള്ളാത്ത എന്റെ സാങ്കൽപ്പിക സ്പാനിംഗ് ട്രീ Tയിൽ u മുതൽ w വരെ ഒരു ചുവന്ന പാതയുണ്ട് അതിനാൽ ഇപ്പോൾ ആ അവകാശവാദം ഞാൻ ആ പ്രത്യേക ട്രീ എടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എഡ്ജ് u പ്രൈം v പ്രൈം നീക്കംചെയ്ത് u എന്ന എഡ്ജ്ൽ മാറ്റിസ്ഥാപിക്കുക ഞങ്ങൾക്ക് ഒരു പുതിയ ട്രീ ലഭിക്കും ശരിയാണ് എനിക്ക് ട്രീ T പ്രൈം ലഭിക്കുന്നു അതിനാൽ T പ്രൈം എന്നത് T മൈനസ് എഡ്ജ് u പ്രൈം v പ്രൈം പ്ലസ് എഡ്ജ് u v ആണ് എന്നാൽ ഇപ്പോൾ ഉഹത്തിലൂടെ u v ഏറ്റവും ചെറിയ വെർട്ടെക്സ് ആയിരുന്നു ഏറ്റവും ചെറിയ ഭാരം എഡ്ജ് u യിൽ നിന്ന് പുറത്ത് u ലേക്ക് പോകുന്നു അതിനാൽ uവിക്ക് u പ്രൈം v പ്രൈമിനേക്കാൾ ഭാരം കുറവാണ് അതിനാൽ T പ്രൈമിന് T യേക്കാൾ ഭാരം കുറവാണ് കൂടാതെ മറ്റെല്ലാം കണക്റ്റുചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനാകും കാരണം കണക്റ്റുചെയ്തിരിക്കുന്ന എന്തും അതിനാൽ u പ്രൈം ഇപ്പോൾ v പ്രൈം ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ബന്ധിപ്പിക്കുന്ന മറ്റെല്ലാ ശീർഷകങ്ങളും T T പ്രൈം വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ T പ്രൈം ഒരു സാധുവായ സ്പാനിങ് ട്രീ ആണ് ഇതിന് ചെറിയ ചിലവുണ്ട് അതിനാൽ T എന്നത് മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ അയിരിക്കില്ല അതിനാൽ പാർട്ടീഷനിനുള്ളിൽ നിന്നും പാർട്ടീഷനു പുറത്തുള്ള ഏറ്റവും മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ എല്ലാ കുറഞ്ഞ ചിലവിലും ഉണ്ടെന്നതിന്റെ തെളിവാണിത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ഒരു ചെറിയ പരാമർശം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ലെമ്മ കുറച്ചുകൂടി തെളിയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ എഡ്ജുകളിലും u v എന്നത് ഏറ്റവും ചെറുതാണ് എന്നത് ശരിയാണ് അതിനാൽ uv ഏറ്റവും ചെറുതാണ് എന്റെ തന്നിരിക്കുന്ന ട്രീലെ ഏത് എഡ്ജ് എടുക്കുക T പ്രൈം നൽകിയ ട്രീ T അകത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു തുടർന്ന് മാറ്റിസ്ഥാപിക്കുക ഉദാഹരണത്തിന് ഞങ്ങൾ അബദ്ധത്തിൽ ഈ എഡ്ജ് എടുത്ത് ഈ എഡ്ജ് മാറ്റിസ്ഥാപിച്ചേക്കാം ഈ എഡ്ജ് എടുത്ത് ഈ എഡ്ജ് ലൂടെ മാറ്റിസ്ഥാപിക്കുക അപ്പോൾ ഇരട്ട പ്രൈം ലഭിക്കാൻ മറ്റൊരു മാർഗമില്ല ശരിയാണ് അതിനാൽ മാറ്റിസ്ഥാപിക്കാൻ ഞങ്ങൾ ശരിയായ എഡ്ജ് തിരഞ്ഞെടുക്കേണ്ടത് വളരെ നിർണായകമാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് കൂടാതെ u എന്നത് v ആയി അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ T ൽ u മുതൽ v വരെയുള്ള പാത പിന്തുടരണം ആ പാത അകത്ത് ആരംഭിച്ച് പുറത്ത് പോകണം അതിനാൽ എഡ്ജുകൾ എവിടെയെങ്കിലും ചിലവാകണം ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള എഡ്ജ് ആണ് അതിനാൽ ചില ഏകപക്ഷീയമായ എഡ്ജുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ ഞങ്ങൾ തെറ്റ് വരുത്തരുത് സാങ്കൽപ്പിക ട്രീ ലെ u ൽ നിന്ന് v ലേക്ക് പോകാൻ അനുവദിക്കുന്ന ആ എഡ്ജ് നമ്മൾ മാറ്റണം പുതിയ ട്രീ ഉണ്ടാക്കാൻ അല്ല അതിനാൽ ഒരിക്കൽ നമുക്ക് ഈ ലെമ്മ ഉണ്ടായിരുന്നെങ്കിൽ പ്രൈമിന്റെ അൽഗോരിത്തിന്റെ കൃത്യത വളരെ വ്യക്തമാണ് അതിനാൽ ഓരോ ഘട്ടത്തിലും പ്രിമിന്റെ അൽഗോരിതം ഓർക്കുക ഞങ്ങൾ കുറച്ച് എഡ്ജുകൾ അടങ്ങിയ ഈ ട്രീ T V നിർമ്മിച്ചു എന്നിട്ട് നമുക്ക് പുറത്ത് എല്ലാം കിടക്കുന്നു ഇപ്പോൾ ഇവയിൽ ഒന്ന് ബന്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശരിയാണ് അതിനാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അകത്തെ സെറ്റ് എന്റെ u സെറ്റ് പുറത്ത് എന്റെ w ഞങ്ങൾ നിങ്ങളെ പ്രിമിൻറെ അൽഗോരിതം അനുമാനിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളെ wവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ ഭാരം ഈ മിനിമം സെപ്പറേറ്റർ ലെമ്മ വഴി ഈ എഡ്ജ് എല്ലാ സ്പാനിങ് ട്രീ നിരത്തിയിരിക്കണം അതിനാൽ അൽഗോരിതം പ്രൈമിന്റെ അൽഗോരിതം പ്രൈമിന്റെ അൽഗോരിതം തിരഞ്ഞെടുക്കുന്ന എഡ്ജ് വാസ്തവത്തിൽ ലെമ്മ നമ്മെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന എഡ്ജ് ആണ് അതിനാൽ പ്രൈമിന്റെ അൽഗോരിതം തീർച്ചയായും ശരിയാണ് അതിനാൽ വാസ്തവത്തിൽ പ്രൈമിന്റെ അൽഗോരിതം കുറച്ചുകൂടി അയവുള്ളതാക്കാൻ നമുക്ക് ലെമ ഉപയോഗിക്കാം ഏറ്റവും ചെറിയ എഡ്ജ് ഞങ്ങൾ ആരംഭിച്ച ഇടുങ്ങിയ പ്രാദേശിക ഫോർമുലേഷൻ ഓർക്കുക ഞാൻ ഏതെങ്കിലും വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ എഡ്ജുകളും ഞാൻ നോക്കുന്നു അപ്പോൾ എനിക്ക് u എന്നത് v ലേക്ക് തന്നെ എടുക്കാം എനിക്ക് എടുക്കാം w മറ്റെല്ലാം ആകാൻ ഞങ്ങൾ ഈ വെർട്ടെക്സ് മൈനസ് ആക്കി അപ്പോൾ v ൽ നിന്ന് ഈ എഡ്ജ് ലേക്ക് പോകുന്ന ഏറ്റവും ചെറിയ എഡ്ജ് എല്ലാ സ്പാനിങ് ട്രീലും ഉണ്ടായിരിക്കണമെന്ന് എനിക്കറിയാം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ ഏതെങ്കിലുമൊരു വെർട്ടെക്സ്ൽ നിന്ന് ആരംഭിക്കുകയും അതിനോട് ചേർന്ന ഏറ്റവും ചെറിയ എഡ്ജ് നോക്കുകയും ചെയ്താൽ എനിക്ക് അത് ആരംഭിക്കാൻ കഴിയും കാരണം അത് മിനിമം സെപ്പറേറ്റർ ലെമ്മയുടെ എല്ലാ സ്പാനിങ് ട്രീലും ഉണ്ടായിരിക്കണം അതിനാൽ ഇത് പ്രിമിന്റെ തന്ത്രത്തിനുള്ള ഇനിപ്പറയുന്ന അൽഗോരിതം നൽകുന്നു അതിനാൽ ഞങ്ങൾ ഏതെങ്കിലും വെർട്ടെക്സ്ൽ നിന്ന് ആരംഭിക്കുന്നു ഇപ്പോൾ നമ്മുടെ നിലവിലെ ട്രീ വെർട്ടെക്സ്കളിലില്ലാത്ത ഓരോ വെർട്ടെക്സ് ആ വെർട്ടെക്സ് നിന്ന് ചില ട്രീ വെർട്ടെക്സ് ലേയ്ക്കുള്ള ഏറ്റവും ചെറിയ എഡ്ജ് ലെ ഭാരം ഞങ്ങൾ v എന്ന ദൂരം എന്ന് വിളിക്കുന്നു കൂടാതെ വൃക്ഷത്തിന്റെ എഡ്ജ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ എഡ്ജുകൾ ആ എഡ്ജ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾ ഓർക്കുന്നു അതിനാൽ ഇതിന് ഒരു അയൽക്കാരനുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നു ശരിയാണ് അതിനാൽ ഒരു നിശ്ചിത സ്ഥലത്ത് എനിക്ക് ചില ട്രീ ഉണ്ടെങ്കിൽ ഈ v യ്ക്ക് ഈ അയൽക്കാരനായ u എന്നത് v ലേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ചെറിയ എഡ്ജ് അണെന്ന് എനിക്കറിയാമെങ്കിൽ ഇവിടെ ഞാൻ അതിന്റെ എഡ്ജ് ലെ ഭാരം പോലെ അകലം പാലിക്കും ഞാൻ അതിനെ u പോലെ അയൽക്കാരനായി സൂക്ഷിക്കും ഏത് എഡ്ജ് ചേർത്തിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ ഇത് എന്നെ അനുവദിക്കും അതിനാൽ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഞാൻ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുള്ള ഏറ്റവും ചെറിയ വെർട്ടെക്സ് തിരയുന്നു പിന്നെ ഞാൻ അത് സെറ്റിലേക്ക് ചേർക്കുകയും അയൽക്കാരുടെ ദൂരവും മൂല്യങ്ങളും ആയി ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ശരിയാണ് അതിനാൽ ഇത് ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം പോലെയാണ് ശരിയാണ് ഒരേയൊരു കാര്യം ദൂരത്തിന്റെ അപ്ഡേറ്റിൽ എന്റെ ദൂരവും ഭാരവും ചേർക്കുന്നത് ഉൾപ്പെടുന്നില്ല ഇത് ഭാരം കണക്കിലെടുക്കുന്നത് മാത്രമാണ് അതിനാൽ അൽഗോരിതം തന്നെ കാണുമ്പോൾ സമാന്തര ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം കൂടുതൽ വ്യക്തമായി കാണാം അതിനാൽ പ്രിംന്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ വലതുവശത്തേക്കുള്ള അവസാന അൽഗോരിതം ഇതാ അതിനാൽ നിങ്ങൾ സന്ദർശിക്കാതെ എല്ലാ വെർട്ടെക്സുകളുടെ ആരംഭിക്കുന്നു ഇതാണ് ബോണ്ടിന്റെ കാര്യം ട്രീൽ ഒന്നും ഇല്ലാത്തതിനാൽ അയൽവാസികളില്ലാത്തതിനാൽ അവയെയെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അതിനാൽ അവർക്ക് ട്രീൽ അയൽക്കാർ ഇല്ല അവയെല്ലാം അനന്തമാണ് ഇത് ട്രീ ആരംഭിക്കുന്നു ഇപ്പോൾ ഞാൻ വെർട്ടെക്സ് 1 ആരംഭിക്കുന്ന ചില ഇനീഷ്യലുകൾ തിരഞ്ഞെടുത്ത് അത് സന്ദർശിക്കേണ്ടതായി അടയാളപ്പെടുത്തുന്നു പക്ഷേ എനിക്ക് എഡ്ജുകളൊന്നുമില്ല അതിനാൽ ഇപ്പോൾ ഓരോ എഡ്ജിനും 1 ൽ നിന്ന് പുറത്തേക്ക് ഞാൻ അതിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ 1 j ഫോമിലെ ഓരോ എഡ്ജ് ലും ഞാൻ പറയുന്നു ട്രീടെ j യുടെ അയൽക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഈ ട്രീൽ ഇപ്പോൾ ഒരു വെർട്ടെക്സ് നിസ്സാരമായ ഒരു ട്രീ അടങ്ങിയിരിക്കുന്നു അതിനാൽ 1 1 0 8 ശരിയാണ് അതിനാൽ j യുടെ അയൽക്കാരൻ 1 ആണ് കാരണം അത് അതിന്റെ കണക്ഷനും ദൂരം ഈ എഡ്ജ് ന്റെ ഭാരവുമാണ് ശരിയാണ് അതിനാൽ ഇത് എന്റെ ആദ്യപടിയാണ് ഇപ്പോൾ എന്റെ ട്രീൽ ബാക്കിയുള്ള n മൈനസ് 1 എഡ്ജുകൾ ചേർക്കേണ്ടതുണ്ട് അതിനാൽ ദിജിക്സ്ട്രാസ് അൽഗോരിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ n മൈനസ് 1 തവണ ഞാൻ വ്യത്യസ്ത ഫോർമാറ്റിൽ ചെയ്യുന്നു സന്ദർശിക്കാത്തതും ദൂരം ഏറ്റവും കുറവുള്ളതുമായ u നിങ്ങൾ തിരഞ്ഞെടുക്കുക സന്ദർശിച്ചതായി അടയാളപ്പെടുത്തുക ഇപ്പോൾ അത് ട്രീ അയി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ u യും u യുടെ അയൽക്കാരനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന എഡ്ജ് നിങ്ങൾ ചേർക്കുന്നു ഈ എഡ്ജ് ഞങ്ങൾ ട്രീടെ എഡ്ജുകളുടെ കൂട്ടത്തിലേക്ക് ചേർക്കുന്നു ഇപ്പോൾ അയൽക്കാരൻ സന്ദർശിക്കാത്ത u യിൽ നിന്നുള്ള ഓരോ എഡ്ജ് ലും ട്രീലേക്കുള്ള നിലവിലെ ദൂരം ഈ എഡ്ജ് ന്റെ ഭാരത്തേക്കാൾ കൂടുതലാണെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ ഇപ്പോൾ ഈ u ചേർത്തു മറ്റൊരു വെർട്ടെക്സ് v ഉണ്ട് അത് മറ്റെവിടെയെങ്കിലും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു ശരിയാണ് അതിനാൽ ഈ ദൂരം d ഉം ഈ ദൂരം d പ്രൈമും ആകാം d എന്നത് v യേക്കാൾ വലുതാണെന്ന് കരുതുക അപ്പോൾ ഇത് ട്രീലാണ് ഇപ്പോൾ u ട്രീൽ ചേർത്തിരിക്കുന്നു ഇപ്പോൾ v ഒരു ചെറിയ എഡ്ജ് ലൂടെ ട്രീ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ഇപ്പോൾ b യ്ക്കുള്ള ദൂരം uv എഡ്ജിന്റെ ഭാരത്തേക്കാൾ വലുതാണ് അപ്പോൾ ഞാൻ ആ ഭാരം uvh ന്റെ ഭാരം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും കൂടാതെ v യുടെ അയൽക്കാരൻ ഇപ്പോൾ u ആണെന്ന് ഞാൻ പറയും അതിനാൽ എനിക്ക് ട്രീൽ v ഉള്ളപ്പോൾ ഞാൻ u എന്ന എഡ്ജ് ചേർക്കും അതിനാൽ ഈ അപ്ഡേറ്റ് ഒഴികെ ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം ചെയ്യുന്നത് ഇതാണ് കാരണം ഈ അപ്ഡേറ്റ് ഞങ്ങൾക്ക് d ഉം u ന്റെ ഭാരവും ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ ഡിജക്സ്ട്രയുടെ അൽഗോരിതത്തിൽ ക്യുമുലേറ്റീവ് ദൂരം ആഗ്രഹിക്കുന്നു ഇവിടെ നമുക്ക് ട്രീലെ ഏറ്റവും അടുത്തുള്ള നോഡിൽ നിന്ന് ഒരു പടി ദൂരം വേണം അല്ലാത്തപക്ഷം പ്രൈമിന്റെ അൽഗോരിതം അടിസ്ഥാനപരമായി ഒരു പുനസ്ഥാപനമാണ് അല്ലെങ്കിൽ മറ്റൊരു അപ്ഡേറ്റ് ഫംഗ്ഷനോടുകൂടിയ ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം ആണ് കൂടാതെ നമുക്ക് ഇത് ദിജ്ക്സ്ട്രയലും ചെയ്യാമായിരുന്നു നമുക്ക് ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം പാത നിലനിർത്താമായിരുന്നു ശരിയാണ് അതിനാൽ ഞങ്ങൾ പാത നിലനിർത്തിയിരുന്നെങ്കിൽ അത് ഇവിടെയുള്ള ഈ അയൽക്കാരന്റെ ബന്ധം പോലെയാകും ഈ എഡ്ജുകൾ എപ്പോഴാണ് എന്റെ ഏറ്റവും ചെറിയ പാതകൾ സെറ്റ് ബേൺ സെറ്റ് എന്തുകൊണ്ടാണ് ഇത് കൂട്ടിച്ചേർത്തത് വലത് എന്നിവയിൽ ചേർത്തു എന്ന് ഞങ്ങൾക്ക് അറിയണം അതിനാൽ ഇവിടെ ഞങ്ങൾ അത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള എഡ്ജ് ഞങ്ങൾ ഓർക്കുന്നു അതിനാൽ ഈ കാര്യങ്ങളുടെ സങ്കീർണ്ണത വിശകലന സമയത്ത് നമുക്ക് മുമ്പ് ശ്രമിക്കാം അതിനാൽ ഓർക്കുക നമുക്ക് എവിടെയും തുടങ്ങാം അതിനാൽ നമുക്ക് 1 മുതൽ ആരംഭിക്കാം ഞങ്ങൾ 1 മുതൽ ആരംഭിക്കുന്നു ഫോം അടങ്ങിയ ഞങ്ങളുടെ ട്രീഞങ്ങൾ അടയാളപ്പെടുത്തുന്നു ഇപ്പോൾ ഇത് ഒരു എഡ്ജ് സ്റ്റാർട്ട് 1 ആയതിനാൽ 1 ന്റെ അയൽപക്കത്തെ മൂല്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അതായത് 2 എന്നതിനാൽ ഞങ്ങൾ 3 മാർക്ക് ചെയ്യുന്നു 18 കാരണം ട്രീ വെർട്ടെക്സ് 1 ഉൾക്കൊള്ളുന്നു അത് ട്രീലെ അയൽവാസിയാണ് ദൂരെയുള്ളത് വെർട്ടെക്സ് 1 അതുപോലെ 1 ന്റെ മറ്റേ അയൽക്കാരൻ 2 അതിനാൽ അതിന്റെ ദൂരം 10 ആണെന്നും അയൽക്കാരൻ 1 ആണെന്നും ഞങ്ങൾ പറയും ശരിയാണ് അതിനാൽ മറ്റെല്ലായിടത്തും ഞാൻ ഇത് വ്യക്തമായി പരാമർശിച്ചിട്ടില്ല എന്നാൽ മറ്റെല്ലായിടത്തും മൂല്യങ്ങൾ മൈനസ് 1 ആണ് ക്ഷമിക്കണം ഇൻഫിനിറ്റി മൈനസും 1 അതിനാൽ ഇത് ഇൻഫിനിറ്റി അയൽക്കാരനും മൈനസ് 1 അതിനാൽ ഇത് സ്ഥിര മൂല്യമാണ് അതിനാൽ സ്ഥിര മൂല്യം എവിടെയായിരുന്നാലും മൂല്യം ഫലപ്രദമായി സൈക്ലിക് അല്ലെന്ന് സൂചിപ്പിച്ച് ഞങ്ങൾ അത് ഉപേക്ഷിക്കും ഇത് കണക്റ്റുചെയ്ത ഗ്രാഫ് ആണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾ ഒടുവിൽ അത് സജ്ജമാക്കും അതിനാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നാൽ ഈ ചർച്ചയിൽ ഞങ്ങൾ അത് ഉപേക്ഷിക്കുകയാണ് അതിനാൽ സന്ദർശിക്കാത്തതും ന്യായമായ ദൂരവുമായി ബന്ധപ്പെട്ടതുമായ ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട് അതിനാൽ ഞങ്ങൾ 2 നേക്കാൾ ചെറുത് തിരഞ്ഞെടുക്കും അതിനാൽ ഇത് 10 ആണ് അതിനാൽ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ വെർട്ടെക്സ് 2 സന്ദർശിക്കുകയും 1 മുതൽ 12 വരെ ഈ എഡ്ജ് ചേർക്കുകയും ചെയ്യുന്നു ഇപ്പോൾ 2 ചേർത്താൽ ഞങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഉണ്ട് അതിനാൽ ഞങ്ങൾ അയൽക്കാരെ നോക്കുന്നു അതിനാൽ 2 ന്റെ അയൽക്കാർ വെർട്ടെക്സ് 3 ഉം വെർട്ടെക്സ് 5 ഉം ആണ് അതിനാൽ വെർട്ടെക്സ് 2 ന് ഞങ്ങൾക്ക് ഒരു പുതിയ ദൂരം 6 ഉണ്ട് അതിനാൽ നിങ്ങൾ 3 ന്റെ ദൂരത്തേക്ക് 6 ലേക്ക് പോയാൽ അവിടെ അത് 2 ലേക്ക് ബന്ധിപ്പിക്കാം അതായത് 6 എന്നത് 18 നേക്കാൾ ചെറുതാണ് അതിനാൽ ട്രീൽ 3 അകലെയാണെന്നതിന്റെ ഏറ്റവും മികച്ച കണക്ക് 18 ആയിരുന്നു അതിനാൽ നിങ്ങൾ 18 1 6 2 എന്നിവ മാറ്റിസ്ഥാപിക്കും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് വെർട്ടെക്സ് 3 ട്രീൽ നിന്ന് 6 അകലെയാണ് അത് ദൂരത്തിൽ ബന്ധിപ്പിക്കണമെങ്കിൽ അത് ബന്ധിപ്പിക്കാൻ കഴിയും 2 അതുപോലെ മുമ്പ് ലേബൽ ചെയ്തിട്ടില്ലാത്ത 5 ഇപ്പോൾ 22 ആയി ലേബൽ ചെയ്തിരിക്കുന്നു അതിന്റെ ദൂരം ട്രീൽ നിന്ന് 20 ആണെന്നും ട്രീലെ അതിന്റെ അയൽക്കാരൻ ലേബൽ വെർട്ടക്സ് v ആണെന്നും സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ വീണ്ടും രണ്ടിൽ ചെറിയത് തിരഞ്ഞെടുക്കുന്നു അതിനാൽ ട്രീൽ ചേർക്കാൻ ഞങ്ങൾ ഈ വെർട്ടക്സ് 3 തിരഞ്ഞെടുക്കും ഒരിക്കൽ ഞങ്ങൾ അത് ചേർത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 എന്ന സ്റ്റാറ്റസ് ലഭിക്കും കാരണം 1 ന്റെ സ്റ്റാറ്റസ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരേയൊരു പുതിയ ലേബൽ കാരണം 1 ഇതിനകം ട്രീൽ ചേർത്തിട്ടുണ്ട് സന്ദർശിക്കാത്ത ട്രീടെ അയൽക്കാരെ മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് അതിനാൽ ഇപ്പോൾ 4 ന് അയൽക്കാരൻ 3 നൊപ്പം 70 ന്റെ ദൂരം ലഭിക്കുന്നു തുടർന്ന് ഈ രണ്ടിനുമിടയിൽ ഇപ്പോൾ 20 എന്നത് 70 നേക്കാൾ ചെറുതാണ് അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ട്രീലേക്ക് 5 ചേർക്കും തുടർന്ന് ഞങ്ങൾ 6 7 എന്നിവയുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും അതിനാൽ 6 ഇപ്പോൾ 10 അയൽക്കാരൻ 5 7 എന്നത് 10 അയൽക്കാരൻ 5 എന്നിവയുമായുള്ള ദൂരം 10 ആണ് ഇപ്പോൾ നമുക്ക് ദൂരം 10 ഉള്ള രണ്ട് വെർട്ടെക്സ് ഉണ്ട് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കാം അതിനാൽ നമുക്ക് ഉദാഹരണത്തിന് 7 തിരഞ്ഞെടുക്കാം ഞങ്ങൾ 7 തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അത് ട്രീൽ ചേർക്കുന്നു ഇപ്പോൾ ഞങ്ങൾ 6 ന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും നേരത്തേ ഇത് അയൽക്കാരൻ 5 നൊപ്പം 10 ആയിരുന്നു എന്നാൽ ഇപ്പോൾ അയൽക്കാരനുമായുള്ള ദൂരം 5 ആണ് അതിനാൽ ഞങ്ങൾ അത് അയൽക്കാരനുമായി കുറയ്ക്കുന്നു 7 ഞങ്ങൾ അതിന്റെ ദൂരം കുറയ്ക്കുകയും അതിന്റെ അയൽക്കാരനെ മാറ്റുകയും ചെയ്യുന്നു ഇപ്പോൾ 5 നും 17 നും ഇടയിൽ നമുക്ക് 6 വെർട്ടെക്സ് 6 പുതിയത് എന്നിട്ട് ഒടുവിൽ ഞങ്ങൾക്ക് 4 ലഭിച്ചു ഇത് നമുക്ക് ലഭിക്കുന്ന ട്രീ ആണ് പ്രൈമിന്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഡിജ്ക്സ്ട്രയുടെ തത്വവുമായി വളരെ സാമ്യമുള്ളതാണ് പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ ഒരു അപ്ഡേറ്റ് ഉപയോഗിക്കുന്നു അതിനാൽ സങ്കീർണ്ണതയും ഡിജക്സ്ട്രയുടെ അൽഗോരിതം പോലെയാണ് നമുക്ക് ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ട് അത് n തവണ ക്രമത്തിൽ n തവണ പ്രവർത്തിക്കുന്നു കാരണം ആ ട്രീ രൂപീകരിക്കുന്നതിന് n മൈനസ് 1 എഡ്ജ് ചേർക്കുകയും ഓരോ തവണയും ഞങ്ങൾ ട്രീ വെർട്ടെക്സ് ചേർക്കുകയും വേണം ഇപ്പോൾ ചേർക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ചിലവ് കണ്ടെത്തുന്നതിന് ഈ ഓർഡർ n സ്കാൻ ഉണ്ട് അതിനാൽ ചേർക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം വെർട്ടെക്സ് കണ്ടെത്തുന്നതിനുള്ള ഡിജക്സ്ട്രയുടെ അൽഗോരിതം ഇതാണ് എന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു തുടർന്ന് ഞങ്ങൾ ഒരു വെർട്ടെക്സ് ചേർക്കുമ്പോൾ എല്ലാ എൻട്രികളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ വീണ്ടും ഒരു സ്കാൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾക്ക് ഒരു അടുത്തുള്ള മാട്രിക്സ് ഉണ്ട് ഇത് വീണ്ടും ഓർഡർ n സമയം എടുക്കും അതിനാൽ മൊത്തത്തിൽ ഇതിന് n സ്ക്വയർ ഓർഡർ എടുക്കും അതിനാൽ ദിജ്ക്സ്ട്രയുടെ അൽഗോരിതം പോലെ എഡ്ജുകളുടെ സമീപത്തെ ലിസ്റ്റ് പ്രാതിനിധ്യത്തിലേക്ക് ഒരു അടുത്തുള്ള മാട്രിക്സ് നീക്കുന്നത് അപ്ഡേറ്റുകളുടെ സങ്കീർണ്ണത കുറയ്ക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നു അതിനാൽ n ആവർത്തനങ്ങളിലുടനീളം ഞങ്ങൾ മൊത്തം ഓർഡർ m അപ്ഡേറ്റുകൾ ചെയ്യുന്നു കാരണം അയൽക്കാർ ഡിഗ്രി എല്ലാ ലംബങ്ങളുടെയും ഡിഗ്രികളുടെ ആകെത്തുക എന്നിവ അനുസരിച്ച് മാത്രം അപ്ഡേറ്റ് ചെയ്യുക എന്നിരുന്നാലും ഓർഡർ n സ്ക്വയർ കൊണ്ടുവരാൻ നമുക്ക് ഒരു ഹീപ്പ് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം കാര്യക്ഷമമായി കണക്കാക്കാനും കഴിയണം ശരിയാണ് അതിനാൽ ഒരു പ്രഭാഷണത്തിൽ നമുക്ക് പരിശോധിക്കാവുന്ന ഒരു ഹീപ്പ് ലഭിച്ചുകഴിഞ്ഞാൽ ക്ലെയിം നമുക്ക് ഏറ്റവും കുറഞ്ഞത് കണ്ടെത്താനും n ലോഗ് സമയത്തിൽ ദൂരം അപ്ഡേറ്റ് ചെയ്യാനും കഴിയും അതിനാൽ ഇത് ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള സങ്കീർണ്ണത നൽകുന്നു m ലോഗ് n പ്ലസ് എം ലോഗ് n x കൃത്യമായി അനുവദിക്കുക അതിനാൽ ഇത് മിനിമം കണ്ടെത്തുന്നതിൽ നിന്നാണ് വരുന്നത് കാരണം n സമയം നമുക്ക് മിനിമം കണ്ടെത്തേണ്ടതുണ്ട് ഇത് അപ്ഡേറ്റുകളിൽ നിന്നാണ് വരുന്നത് കാരണം ഞങ്ങൾ മൊത്തത്തിൽ m അപ്ഡേറ്റുകൾ ചെയ്യേണ്ടതുണ്ട് ഓരോ അപ്ഡേറ്റുകളും ലോഗ് n തവണ എടുക്കുന്നു അതിനാൽ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം പോലെ ഞങ്ങൾ കൃത്യമായി n പ്ലസ് n ലോഗ് n നേടുന്നു അതിനാൽ ഞങ്ങൾ പ്രിമിന്റെ അൽഗോരിതം ഉപേക്ഷിക്കുന്നതിനുമുമ്പ് ഒരു അവസാന പോയിന്റ് കൃത്യതയിൽ നമ്മൾ മിനിമം സെപ്പറേറ്റർ ലെമ്മ ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് ഓർക്കുക അതിൽ എഡ്ജ് ഭാരം വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത ഉദാഹരണത്തിൽ തീർച്ചയായും നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഒരേ ഭാരമുള്ള എഡ്ജുകളും ഒന്നിലധികം എഡ്ജുകളും ഉണ്ടായിരിക്കാം അതിനാൽ ലെമ്മയിൽ ഞങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും ശരി നിങ്ങൾക്ക് ആ വില കൃത്യമായി ഭാരം മാത്രമല്ല ഭാരവും മറ്റ് ചില പദങ്ങളും ആക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വാദിക്കാം അതിനാൽ പൊതുവേ എഡ്ജുകളുടെ മൊത്തത്തിലുള്ള ക്രമം ഞങ്ങൾ ശരിയാക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും m എഡ്ജുകളുണ്ട് അതിനാൽ ഞങ്ങൾ 1 മുതൽ n വരെ എഡ്ജുകൾ ഏകപക്ഷീയമായി അക്കമിടുന്നു ഭാരം ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ ഭാരം തുല്യമാണെങ്കിൽ ഒരു അറ്റത്ത് എഡ്ജുകളേക്കാൾ ചെറുതാണെന്ന് ഞങ്ങൾ പറയുന്നു എന്നാൽ ഓർഡറിംഗിലെ ഇൻഡക്സ് ചെറുതാണ് ശരിയാണ് അതിനാൽ e f എന്നിവയ്ക്ക് uv യുടെ ഭാരം u പ്രൈം v പ്രൈം എന്നിവയുടെ ഭാരം ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് i j എന്നീ ഇൻഡക്സ് ഉണ്ട് അതിനാൽ ഇത് 1 മുതൽ m വരെയുള്ള ചില i ആണ് ഇത് 1 മുതൽ m വരെയുള്ള ചില j ആണ് അതിനാൽ ഒന്നുകിൽ ഇയുടെ ഭാരം f ന്റെ ഭാരത്തേക്കാൾ ചെറുതായിരിക്കണം അല്ലെങ്കിൽ ഭാരം തുല്യമായിരിക്കും തുടർന്ന് i j നേക്കാൾ ചെറുതായിരിക്കണം അതിനാൽ ഇത് ഞങ്ങൾക്ക് സമയ ലംഘന നിയമം നൽകുന്നു അതിനാൽ ഇത് ഇപ്പോൾ അടിസ്ഥാനപരമായി നമ്മോട് പറയും നമുക്ക് എല്ലായ്പ്പോഴും രണ്ട് എഡ്ജ് താരതമ്യം ചെയ്യാനും 1 മറ്റൊന്നിനേക്കാൾ ചെറുതാണെന്ന് പ്രഖ്യാപിക്കാനും പ്രൈമിന്റെ അൽഗോരിതം ചെയ്യുന്നത് ചെറുത് തിരഞ്ഞെടുക്കുക എന്നതാണ് അതിനാൽ ഇത് രണ്ട് തുല്യമായ കാര്യങ്ങൾ ഉള്ളപ്പോൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു തന്ത്രം ഞങ്ങൾ നൽകുന്നുവെന്നാണ് ഇത് പറയുന്നത് അതിനാൽ അൽഗോരിതം പറയുന്നത് ഏറ്റവും കുറഞ്ഞ ദൂരം തിരഞ്ഞെടുക്കുക ഒരേ കുറഞ്ഞ ദൂരത്തിൽ ഒന്നിലധികം തവണ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഏകപക്ഷീയമായ പോയിന്റ് തിരഞ്ഞെടുക്കുന്നു അതിനാൽ അവയിൽ ഒരു ഓർഡർ തിരഞ്ഞെടുത്ത് ആ ക്രമത്തിൽ പോകുന്നത് അർത്ഥമാക്കുന്നുണ്ടോ എന്ന് ഏകപക്ഷീയമായ ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുക എന്നതാണ് അതിനാൽ നിങ്ങൾ വ്യത്യസ്ത ഓർഡറുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത ട്രീസ് ലഭിക്കും അതിനാൽ ഒരേ തൂക്കമുള്ള ഒരു ട്രീൽ നമുക്ക് ഒന്നിലധികം എഡ്ജുകളുണ്ട് പൊതുവേ നമുക്ക് തനതായ ഒരു ട്രീ ലഭിച്ചേക്കില്ല വാസ്തവത്തിൽ നിങ്ങൾക്ക് എല്ലാ ഭാരങ്ങളും ഒരേപോലെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനാകും അടിസ്ഥാനപരമായി നിങ്ങൾ വിവിധ എഡ്ജുകൾ കൂട്ടിച്ചേർക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു ട്രീൽ ഒരു എഡ്ജുകളുണ്ടാകും കാരണം ഒരു ട്രീൽ ഒരു എഡ്ജുകൾ ഉണ്ടാകാം മറ്റൊരു ട്രീൽ ഇല്ലായിരിക്കാം അങ്ങനെ തന്നെ അതിനാൽ മൊത്തത്തിലുള്ള മിനിമം സ്പാനിങ് ട്രീടെ എണ്ണം വളരെ വലുതായിരിക്കും പ്രൈമിന്റെ അൽഗോരിതം എന്താണ് ചെയ്യുന്നത് അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രുസ്കലും എന്താണ് ചെയ്യുന്നത് സാധ്യമായ കാര്യങ്ങളിൽ ഒന്ന് കാര്യക്ഷമമായി തിരഞ്ഞെടുക്കാൻ ഗ്രീഡി തന്ത്രം ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ എഡ്ജ് വെയിറ്റുകൾ അദ്വിതീയമാണെങ്കിൽ കൂടുതൽ ചോയ്സ് ഇല്ല നിങ്ങൾ ഒരേ ട്രീ എടുക്കേണ്ടതുണ്ട് എഡ്ജ് വെയ്റ്റുകൾ തനിപ്പകർപ്പാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒന്നിലധികം ട്രീ ഉണ്ടാകും ഓരോ ഘട്ടത്തിലും ഏറ്റവും ചെറിയവ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഈ തന്ത്രം ഏറ്റവും ചെറിയവയിൽ ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു ദ്രുത മാർഗം നൽകും എന്നാൽ അതുല്യമായ ഒന്നല്ല